ഈ കോഴ്സിന്റെ രണ്ടാമത്തെ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം അവിടെ ഇംപെഡൻസ് മാച്ചിംഗ് നെറ്റ്വർക്ക് എങ്ങനെ രൂപകൽപ്പന ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള നമ്മളുടെ ആശയങ്ങൾക്ക് കൂടുതൽ വ്യക്തത നൽകുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു നമ്മളുടെ മുമ്പത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ച ടൂളുകൾ ആയ സ്മിത്ത് ചാർട്ട് തീർച്ചയായും ഉപയോഗിക്കും അതിനാൽ സ്മിത്ത് ചാർട്ട് ഉപയോഗിച്ച് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് ഡിസൈൻ തന്നെയാണ് ആദ്യത്തെ പ്രശ്നം 500 മെഗാ ഹെർട്സിന്റെ ഫ്രീക്വൻസിയിൽ 200 മൈനസ് j 100 ഓം മുതൽ 100 ഓം ലൈൻന് തുല്യമായ ZL ഇംപെഡൻസ് ഉള്ള ഒരു സീരീസ് RC ലോഡുമായി പൊരുത്തപ്പെടുന്നഎൽ സെക്ഷൻ മാച്ചിംഗ് നെറ്റ്വർക്ക് കൂടാതെ മാച്ച് ചെയുന്ന ഫ്രീക്വൻസി നെറ്റ്വർക്കിന്റെ റെസ്പോൺസും നിർണ്ണയിക്കുക ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം നമ്മൾ എൽ സെക്ഷൻ ആയി മാച്ച് ചെയുന്ന ഒരു ലംപ്ഡ് എലമെന്റ് ചെയ്യണം അതിനാൽ ആദ്യ ഭാഗം ഈ പ്രദേശത്ത് നമ്മൾ എവിടെയാണെന്ന് കണ്ടെത്തുകയാണ് കാരണം അതിനെ അടിസ്ഥാനമാക്കി നമ്മൾക്ക് പൊതുവായ ഡിസൈനുകൾ ഉണ്ടാകും അതിനാൽ ആദ്യത്തെ കാര്യം 2− j 1 ലേക്ക് വരുന്ന നോർമലൈസ്ഡ് ഇംപെഡൻസ് പ്ലോട്ട് ചെയുകയാണ് അതിനാൽ സ്മിത്ത് ചാർട്ടിൽ 2− j 1 പ്ലോട്ട് ചെയ്യുക നമ്മൾ സ്മിത്ത് ചാർട്ട് പ്ലോട്ട് ചെയ്യുന്നതായി നിങ്ങൾ കാണുന്നു അത് ഇവിടെയുണ്ട് ഇപ്പോൾ ഇത് ഏത് ഭാഗമാണ് ഈ ഭാഗം റീജിയൻ 2 ആണെന്ന് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഈ പ്രദേശം നിർണ്ണയിക്കുക ഇത് റീജിയൻ 2 ആണ് ഇപ്പോൾ റീജിയൻ 2 ൽ നിങ്ങൾ ഇപ്പോൾ തിരികെ പോയി നിങ്ങളുടെ ചോയ്സ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു Cp LS അല്ലെങ്കിൽ Lp−Cs ലഭിക്കും അതായത് ആദ്യം നിങ്ങൾക്ക് ലോഡിന് സമാന്തരമായി ഒരു കപ്പാസിറ്റർ capacitor ഉണ്ടായിരിക്കും തുടർന്ന് ഒരു സീരീസ് LS അല്ലെങ്കിൽ ലോഡിന് സമാന്തരമായി ഒരു ഇൻഡക്ടർ ഉണ്ടായിരിക്കും നമുക്ക് ആദ്യത്തേത് Cp LS തിരഞ്ഞെടുക്കാം അതിനാൽ സമാന്തരമായി ഒരു കപ്പാസിറ്റർ ഉണ്ടെന്നും ഇത് ഒരു സീരീസ് ഇൻഡക്ടൻസാണെന്നും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ലോഡിനൊപ്പം നിങ്ങൾ കാണുന്നു അതിനാലാണ് നമ്മൾ jX jB എന്ന് വിളിക്കുന്നത് അതിനാൽ നമ്മളുടെ തിരഞ്ഞെടുപ്പ് സമാന്തരമായ ഒന്നായതിനാൽ ഘട്ടങ്ങൾ പിന്തുടരുക തുടർന്ന് പരിവർത്തനം ചെയ്യുക അതിനാൽ ZL ന് പകരം നമ്മൾ YL ലേക്ക് പോകും അങ്ങനെ ഈ 2 ഉം നമുക്ക് ചേർക്കാൻ കഴിയും അതിനാൽ ഈ ZL YL ആയി പരിവർത്തനം ചെയ്യപ്പെടുന്നു ഇത് നിങ്ങളുടെ YL ഈ പോയിന്റാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം ഇപ്പോൾ ഈ 1 j X സർക്കിൾ നിങ്ങൾ 180 ഡിഗ്രി കറക്കി മാറ്റി അതിനാൽ ഇത് നിങ്ങളുടെ 1 j B ആണ് നിങ്ങൾ സ്മിത്ത് ചാർട്ട് നോക്കിയാൽ 1 j B സർക്കിൾ നിങ്ങൾ ഇവിടെ കാണുന്നു അതിനാൽ ഒരേ കോൺസ്റ്റന്റ് ഇംപെഡൻസ് തുടരുക അതായത് 0 4 നിങ്ങൾ ഇപ്പോൾ ഇതേ കോൺസ്റ്റന്റ് ആയ 0 4 സർക്കിളിൽ നീങ്ങുന്നു G എന്നത് 0 4 സർക്കിളിന് തുല്യമാണ് ജനറേറ്ററിലേക്ക് പോകുക നിങ്ങൾ ഈ 1 j B സർക്കിൾ ഇവിടെ മുറിക്കുന്നതായി നിങ്ങൾ കാണുന്നു അതിനാൽ നമ്മൾ അതിനെ Y 1 എന്ന് വിളിക്കുന്നു ഇപ്പോൾ അതിനുപകരം എനിക്ക് മുന്നോട്ട് പോകാം തുടർന്ന് ഞാൻ ഈ സർക്കിൾ ഇവിടെ എവിടെയെങ്കിലും മുറിക്കും എന്ന് നിങ്ങൾക്ക് പറയാം അതിനാൽ ഞാൻ ഇതും തുടരാം അത് മറ്റൊരു പരിഹാരമായിരിക്കും ആദ്യം നമുക്ക് ഏറ്റവും അടുത്തുള്ള പോയിന്റ് Y 1 നോക്കാം ഇതിൽ ഇനിയും ചേർക്കേണ്ടതുണ്ട് അതിനാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റുവാൻ ഞാൻ എത്രമാത്രം സസെപ്റ്റൻസ് ചേർക്കണം കണ്ടക്റ്റൻസ് കോൺസ്റ്റന്റ് ആണ് അതിനാൽ ഞാൻ അടിസ്ഥാനപരമായി എന്റെ സസ്സെപ്റ്റൻസ് മാറ്റുകയാണ് ഇവിടെയും ഇവിടേയും എന്താണ് സപ്സെപ്റ്റൻസ് മൂല്യം എന്ന് നിങ്ങൾക്ക് വായിക്കാൻ കഴിയും വ്യത്യാസമെന്തെന്നാൽ നിങ്ങൾ ഇത് ചേർക്കേണ്ടതുണ്ട് ആരാണ് അത് ചേർക്കുക അത് ചെയുന്നത് സിപി ആയിരിക്കും ഇയാൾ ഇവിടെ അതാണ് ചെയ്തത് അതിനാൽ അയാൾ നിങ്ങളെ ഇപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്നു ഇപ്പോൾ ഇത് മറ്റൊരു സീരീസ് ആം ആണെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ നമ്മൾ ഇവിടെ നിന്ന് ഇംപെഡൻസിലേക്ക് മാറേണ്ടതുണ്ട് അതിനാൽ Y 1 ന്റെ ഇംപെഡൻസ് Z1 ആണെന്ന് നമ്മൾ കാണുന്നു ഇപ്പോൾ നമ്മൾ ഇതിനകം ഇവിടെ നിന്ന് 1 j X സർക്കിളിലാണ് ഇവിടെ നിന്ന് നമുക്ക് ഇവിടേക്ക് പോകേണ്ടതുണ്ട് നമ്മൾ അത് എങ്ങനെ ചെയ്യും ഇതിന് വീണ്ടും ഇതിന് തുല്യമായ റിയാക്റ്റൻസ് മാറ്റം ആവശ്യമാണ് അതിനാൽ നിങ്ങൾക്ക് ഈ മൂല്യം കണ്ടെത്താൻ കഴിയും ഇത് 0 28 ആണെന്നും ഇത് 1 2 ആണെന്നും നമ്മൾ കണ്ടെത്തി നിങ്ങൾക്ക് ഇപ്പോൾ അത് അസാധാരണമാക്കാനും നിങ്ങളുടെ LC മൂല്യം എന്താണെന്ന് കണ്ടെത്താനും കഴിയും അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് 500 മെഗാ ഹെർട്സിൽ ഇതിന്റെ L ഉം ഇതിന്റെ C യും ഉണ്ട് ഇപ്പോൾ ഞാൻ ഇതിനകം പറഞ്ഞതുപോലെ മുകളിലേക്ക് നീങ്ങുന്നതിന് പകരം നിങ്ങൾക്ക് താഴേക്ക് പോയി പോയിന്റ്നെ മുറിക്കാം അപ്പോൾ ഈ 2 മൂല്യങ്ങൾ ലഭിക്കും അതിനാൽ ഇവയാണ് മറ്റ് 2 മൂല്യങ്ങൾ ഇപ്പോൾ ഏതാണ് അഭികാമ്യം നമ്മൾ കണ്ടതുപോലെ നിങ്ങൾ പ്ലോട്ട് ചെയ്യുന്നു നിങ്ങൾക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് പ്ലോട്ട് ചെയ്യാം അതിനാൽ നിങ്ങൾ ഫ്രീക്വൻസി റെസ്പോൺസ് പ്ലോട്ട് ചെയ്താൽ 1 ഉം 2 ഉം ഇതുപോലെ വരുന്നതായി നിങ്ങൾ കാണുന്നു 5 ന്റെ VSWR ടോളറബിൾ ആണെന്ന് കരുതുക അപ്പോൾ 1 5 VSWR കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ആ VSWR VSWR1|Γ L|1−|Γ L| ആണ് അതിനാൽ ഇത് 1 5 ആണെങ്കിൽ ΓL എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തും അത് എത്ര വരും 0 1 എന്നതിനേക്കാൾ കൂടുതൽ വരും അതിനാൽ നമുക്ക് 0 2 എന്ന് പറയാം ഇത് 0 2 ആണെന്ന് നമുക്ക് ഏകപക്ഷീയമായി എടുക്കാം അതിനാൽ നിങ്ങൾ ഇത് 0 2 എടുക്കുക തുടർന്ന് 0 2 ന് കൂടുതലോ കുറവോ ആയ രണ്ടിനും ഒരേ പൊരുത്തം ഉള്ളതായി നിങ്ങൾ കാണുന്നു അതിനാൽ ആ അർത്ഥത്തിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അത് സമാനമാണ് എന്നിട്ടും ഞാൻ ഇതായിരിക്കും ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് ആ കറുപ്പ് എന്ന് ചോദിച്ചാൽ കാരണം ഈ ചുവപ്പ് വളരെ ഷാർപ് ആണ് ഇപ്പോൾ 500 മെഗാ ഹെർട്സിന്റെ ഡിസൈൻ ഫ്രീക്വൻസിക്ക് സമീപം ഇത് വളരെ ഷാർപ് ആണ് അതേസമയം ഇത് ഡിസൈൻ ഫ്രീക്വൻസിക്ക് സമീപം നൽകുന്നില്ല ഇത് നല്ല പൊരുത്തം നൽകുന്നില്ല പക്ഷേ ഇത് കുർമത കുറവാണ് അതിനാൽ ഞാൻ അത് തിരഞ്ഞെടുക്കും പക്ഷേ നിങ്ങൾ 0 1 എന്ന് പറഞ്ഞാൽ ഞാൻ തീർച്ചയായും ചുവപ്പിലേക്ക് പോകും ഇതിലേക്ക് ആയിരിക്കില്ല അതിനാൽ നിങ്ങളുടെ അപ്ലിക്കേഷനെ ആശ്രയിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ അത് എൽ സെക്ഷൻ ഡിസൈനുകളായിരുന്നു അതിനാൽ നിങ്ങൾ മറ്റ് പ്രദേശങ്ങളിലാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അത് കണ്ടെത്താനാകും ലോഡ് ഇംപെഡൻസുമായി പൊരുത്തപ്പെടുന്ന ഒരു ഷോർട്ട് സർക്യൂട്ട് ഷണ്ട് സ്റ്റബ് മാച്ചിംഗ് നെറ്റ്വർക്ക് രൂപകൽപ്പന ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നു ഒരു സങ്കീർണ്ണമായ ലോഡ് 200 ഓം ലൈൻ അതായത് ക്യാരക്റ്ററിസ്റ്റിക് ഓം 100 ഓം 1 ജിഗാ ഹെർട്സ് 1 5 എന്ന വിഎസ്ഡബ്ല്യുആർ കണ്ടെത്തുന്നതും ഇവിടെ നൽകിയിരിക്കുന്നു ഇതിൽ നിന്ന് എനിക്ക് ടോളറബിൾ VSWR 1 5 എന്ന് പറയാം അതിനാൽ നമുക്ക് അത് ഒന്നുകൂടി നോക്കാം ആദ്യം സിംഗിൾ സ്റ്റെപ്പ് മാച്ചിങ് single സ്റ്റെപ് matching കണ്ടെത്തുക നിങ്ങൾ ZL ബാറുമായി പൊരുത്തപ്പെടുന്ന സിംഗിൾ സ്റ്റെപ്പ് മാച്ചിങ് ഓർക്കുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം പ്ലോട്ട് ചെയ്യുക എന്നിട്ട് സ്ഥിരമായ VSWR സർക്കിൾ വരയ്ക്കുക നമ്മൾ അതുപോലെ ചെയ്തുകഴിഞ്ഞാൽ ഇതായിരിക്കും ZL ബാർ അതിനാൽ VSWR സർക്കിൾ കോൺസ്റ്റന്റ് ആണ് ZL നമുക്ക് YL ലേക്ക് പരിവർത്തനം ചെയ്യേണ്ടതുണ്ട് കാരണം അഡ്മിറ്റൻസ് പ്ലെയിനിൽ അത് എളുപ്പമായിരിക്കും അതിനാൽ നമ്മൾ YL പരിവർത്തനം ചെയ്യുന്നു ഇത് അഡ്മിറ്റൻസ് ചാർട്ടായി കണക്കാക്കുന്നു നിങ്ങൾ Y Z ചാർട്ടുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റൊന്നും പരിഗണിക്കേണ്ടതില്ല അതിനാൽ ഞാൻ Y Z ചാർട്ട് തിരഞ്ഞെടുക്കുന്നു പക്ഷേ അത് ലഭ്യമല്ലെങ്കിൽ പ്രതിവിധി ഇംപെഡൻസ് ചാർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നൽകിയിരിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് Y Z ചാർട്ട് ഉണ്ടെങ്കിൽ അത് എല്ലായ്പ്പോഴും നിങ്ങളുടെ മനസ്സിൽ അത് അഡ്മിറ്റൻസായി മാറ്റേണ്ടതില്ല അല്ലെങ്കിൽ അത് മറ്റൊരു നിറത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് അതിനാൽ നമ്മൾ ഈ YL ലേക്ക് വന്നിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ട്രാൻസ്മിഷൻ ലൈനിലൂടെ നീങ്ങേണ്ടതുണ്ട് അതായത് കോൺസ്റ്റന്റ് VSWR സർക്കിളിലൂടെ നീങ്ങുക അതിനാൽ ഇതാണ് കോൺസ്റ്റന്റ് ആയ VSWR സർക്കിൾ ജനറേറ്ററിലേക്ക് നീങ്ങുക എന്നതിനർത്ഥം ജനറേറ്ററിലേക്കുള്ള ഈ ക്ലോക്ക് വൈസ് ദിശയിൽ ജനറേറ്ററിലേക്ക് നിങ്ങുക ഇപ്പോൾ ഈ G എവിടയാണ് ഒരു സർക്കിളിന് തുല്യമായ അല്ലെങ്കിൽ 1 j B സർക്കിൾ ന് തുല്യമായത് എന്ന് കണ്ടെത്തുക ചിലപ്പോൾ നമ്മൾ അതിനെ G1 സർക്കിൾ എന്ന് വിളിക്കുന്നു ചിലപ്പോൾ നമ്മൾ 1 j B സർക്കിൾ വിളിക്കുന്നു ഇവയ്ക്ക് ഒരേ അർത്ഥമുണ്ട് അവ എവിടെയാണ് മുറിക്കുന്നതെന്ന് നമ്മൾ ഇപ്പോൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഈ YL ൽ നിന്ന് നമ്മൾ ജനറേറ്ററിലൂടെ നീങ്ങേണ്ടതുണ്ട് ഈ സമയത്ത് അത് ഇപ്പോൾ മുറിക്കുന്നത് നിങ്ങൾ കാണുന്നു കൂടാതെ ഞാൻ തുടരും ഞാൻ ഇവിടെ നിർത്തുന്നില്ല ഇവിടെ പോകും ഇവിടെയും ഇത് മുറിക്കുന്നു ഇതാണ് 1 j B സർക്കിൾ ഇവിടെയും ഇവിടെയും അത് മുറിക്കുന്നു അതിനാൽ ഇവയാണ് 2 പരിഹാരങ്ങൾ അതിനാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് ഇന്റർസെക്ഷൻ പോയിന്റ് കണ്ടെത്തുക തുടർന്ന് ചാർട്ടിന്റെ പുറം ചുറ്റളവിൽ നിന്ന് Y 1 തമ്മിലുള്ള ദൂരം d അളക്കുക അതിനാൽ ഈ പരിഹാരം d എന്നത് 0 11 ലാംഡയാണ് തുടർന്ന് നിങ്ങൾ സസെപ്റ്റൻസിന്റെ അളവ് നിർണ്ണയിക്കുക അതിനാൽ നിങ്ങൾ ഈ മൂല്യം വായിച്ച് കണ്ടെത്തുക തത്കാലം ഇവിടെ Y 11 j 1 47 ആണെന്ന് കരുതുക അതിനർത്ഥം ഇപ്പോൾ എനിക്ക് ഷണ്ട് സ്റ്റബ് ഉണ്ടായിരിക്കണം സ്റ്റബ് ഈ ക്ലാസ് j 1 47 ബാലൻസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതായത് ഷണ്ട് സസ്സെപ്റ്റൻസ് j 1 47 ആയിരിക്കും ഇപ്പോൾ അതൊരു ഷോർട്ട്ഡ് സ്റ്റബ് ഷോർട്ട് സർക്യൂട്ട് സ്റ്റബ് ആണെങ്കിൽ അഡ്മിറ്റൻസ് ചാർട്ടിൽ ഇതാണ് ഷോർട്ട് സർക്യൂട്ട് ഇംപെഡൻസ് ചാർട്ടിൽ ഇതാണ് ഷോർട്ട് സർക്യൂട്ട് ഇപ്പോൾ ഇതാണ് അഡ്മിറ്റൻസ് ചാർട്ട് ഷോർട്ട് സർക്യൂട്ട് ഇവിടെ നിന്ന് നമുക്ക് ജനറേറ്ററിന്റെ അടുത്തേക്ക് പോകേണ്ടിവരും ജെ 1 47 എവിടെയാണെന്ന് ഞാൻ കാണണം അത് ഇവിടെ നിന്ന് ആയിരിക്കും എനിക്ക് ഇവിടെ എവിടെയെങ്കിലും വരേണ്ടതായി വരും ഒരുപക്ഷേ ഇവിടെ − j 1 47 അത് സ്റ്റബിന്റെ നീളം ആയിരിക്കും അതിനാൽ ഇത് 0 095 ലാംഡ ആണെന്ന് നമ്മൾ നിർണ്ണയിച്ചു നിങ്ങളുടെ ലാംഡ മൂല്യത്തെ അടിസ്ഥാനമാക്കി ഈ പ്രശ്നത്തിന് 1 ജിഗാ ഹെർട്സ് കിട്ടുമെന്ന് ഞാൻ കരുതുന്നു അതിനാൽ 1 ജിഗാ ഹെർട്സ് എന്നാൽ 30 സെന്റീമീറ്റർ ലാംഡ എന്നാണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് L എന്നത് 0 095 × 30 സെന്റീമീറ്റർ ആണെന്ന് കണ്ടെത്താനാകും അതിനാൽ നിങ്ങളുടെ ഡിസൈൻ പൂർത്തിയായി ഇപ്പോൾ ഈ പദപ്രയോഗങ്ങൾ എഴുതുകയും ഫ്രീക്വൻസി റെസ്പോൺസ് കണ്ടെത്തുകയും ചെയ്യുന്നുവെന്ന് അവർ പറഞ്ഞതായി നിങ്ങൾ കണ്ടെത്തി 1 ഗിഗാ ഹെർട്സിൽ ഇത് നന്നായി പൊരുത്തപ്പെടുന്നതായി നിങ്ങൾ കാണുന്നു പക്ഷേ അത് മാറുകയാണ് അതിനാൽ ഏത് പോയിന്റിലാണ് നിങ്ങൾ ബാൻഡ്വിഡ്ത്ത് റെസ്പോൺസ് കണ്ടെത്തുന്നതെന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് സഹിക്കാവുന്ന VSWR 1 5 ന്റെ ബാൻഡ്വിഡ്ത്ത് കണ്ടെത്തുക അതുപോലെ ഡബിൾ ഷണ്ട് സ്റ്റബ് മാച്ചിംഗ് നെറ്റ്വർക്ക് ഫ്രീക്വൻസി റെസ്പോൺസുള്ള ഈ സിംഗിൾ സ്റ്റബ് നിങ്ങൾ കാണുന്നു നിങ്ങൾക്ക് ഇത് ഇതുപോലെ പ്ലോട്ട് ചെയ്യാം ഇനി നമുക്ക് ഡബിൾ ഷണ്ടിലേക്ക് വരാം അതിനാൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്ത ഡബിൾ ഷണ്ട് സ്റ്റബ് മാച്ചിംഗ് നെറ്റ്വർക്ക് നോക്കാം നമ്മളുടെ ലബോറട്ടറി ഫോട്ടോയിൽ കണ്ടതുപോലെ ഒരു നിശ്ചിത ദൂരമുണ്ടെന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ നമുക്ക് നിശ്ചിത ദൂരം 3 75 സെന്റീമീറ്റർ ആണെന്ന് പറയാം ZL60− j 80 ഇത് 50 ഓം ആണ് അതിനാൽ നമ്മൾക്ക് ഷണ്ടിൽ ബന്ധിപ്പിച്ച 2 ഓപ്പൺ സർക്യൂട്ട് സ്റ്റബ് ഉണ്ട് ഇപ്പോൾ ഈ l1 l2 എന്നിവ രൂപകൽപ്പന ചെയ്യുക ഈ l1 l2 മൂല്യം കണ്ടെത്തുക അതിനാൽ ആദ്യം ലോഡ് ഇംപെഡൻസ് കണ്ടെത്തുക തുടർന്ന് അതിനെ അഡ്മിറ്റൻസിലേക്ക് പരിവർത്തനം ചെയ്യുക ഇപ്പോൾ 1 ഗിഗാ ഹെർട്സിൽ 3 75 ആണ് അതായത് 30 സെന്റീമീറ്റർ അതിനാൽ ഇത് λ 8 ആണ് λ 8 വേർതിരിക്കൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് 90 ഡിഗ്രി റൊട്ടേഷൻ എന്നാണ് അതിനാലാണ് നിങ്ങൾ 1 j B സർക്കിൾ തിരിക്കേണ്ടത് 1 j B സർക്കിൾ ഇതാണ് 90 ഡിഗ്രി കൊണ്ട് തിരിക്കുക തുടർന്ന് കോൺസ്റ്റന്റ് കണ്ടക്റ്റൻസിലൂടെ സഞ്ചരിക്കുന്നത് ലോഡ് YL ആണ് ഇപ്പോൾ ഈ സർക്കിളിലെത്താൻ കോൺസ്റ്റന്റ് കണ്ടക്റ്റൻസ് സർക്കിൾലേക്ക്constant കണ്ടക്റ്റൻസ് circle സഞ്ചരിക്കുന്നു അതിനാൽ അതാണ് ഈ ഭാഗം നിങ്ങൾ ഇവിടെ എത്തുന്നു ഇത് നിങ്ങൾക്ക് തുടരാൻ കഴിയുന്ന ഒരു പരിഹാരമാണ് നിങ്ങൾക്ക് ഇത് മറ്റൊരു പോയിന്റിൽ മുറിക്കാനും കഴിയും അതായത് നിങ്ങൾ ഇത് ഇവിടെ തുടരുകയാണെങ്കിൽ ഇവിടെ മറ്റൊരു പരിഹാരം ഉണ്ടാകും അതിനാൽ നമുക്ക് ഇത് എടുക്കാം എന്നിട്ട് ഈ മൂല്യം വായിക്കാം അതിനാൽ നിങ്ങൾക്ക് ഈ Y 1 കാര്യം ലഭിക്കുന്നു തുടർന്ന് ഈ ആദ്യ പകുതി സസ്സെപ്റ്റൻസ് മാറ്റം നൽകുന്നു കാരണം ഇവിടെ വന്നതിൽ നിന്ന് ഇവിടെ വരെ വന്നപ്പോൾ നിങ്ങൾ ആദ്യ പകുതി നൽകിയ സസ്സെപ്റ്റൻസ് മാറ്റി അതിനാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആദ്യ പകുതി മൂല്യം ലഭിക്കും വീണ്ടും ഇവിടെ നിന്ന് പുതിയതിലൂടെയുള്ള ഒരു നീക്കമാണ് ഇത് അതിനാൽ ഇപ്പോൾ മറ്റൊരു VSWR സർക്കിൾ വരയ്ക്കുക കാരണം ഇപ്പോൾ നിങ്ങൾ ട്രാൻസ്മിഷൻ ലൈനിലൂടെ നീങ്ങേണ്ടതുണ്ട് അതിനായി ഈ പുതിയ വിഎസ്ഡബ്ല്യുആർ സർക്കിൾ നിങ്ങൾ അങ്ങോട്ടേക്ക് നീക്കുക എന്നിട്ട് ഇവിടെ വരിക 2 സ്റ്റബ് ഇംപെഡൻസുകൾ നോർമലൈസ് ചെയ്യുക അതിനാൽ Y 1 ന് അനുസൃതമായി നിങ്ങൾ സ്വയമേവ 1 j B സർക്കിളിൽ എത്തും അതിനാലാണ് നിങ്ങൾ നേരത്തെ തിരിഞ്ഞത് അതിനാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വരാൻ കഴിയും Y 2 ന്റെ മൂല്യം വായിക്കുക നമ്മൾ ഇവിടെ നൽകിയിരിക്കുന്ന സ്കെയിലിന്റെ ഉത്ഭവത്തിലെത്താൻ ഈ j B2 നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട് തുടർന്ന് 2 സ്റ്റബ് ഇംപെഡൻസുകൾ അസാധുവാക്കുന്നത് നീളം നിർണ്ണയിക്കുന്നു ഓപ്പൺ സർക്യൂട്ട് എന്നാൽ Y0 എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ Y0 ഇതാണ് ഏറ്റവും ഇടത് പോയിന്റ് അവിടെ നിന്ന് നിങ്ങൾക്ക് l1 l2 l രണ്ട് എന്നിവ കണ്ടെത്താം അങ്ങനെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ ആ ഇതര ഭാഗം എടുത്താൽ നിങ്ങൾക്ക് മറ്റ് 2 കാര്യങ്ങൾ ലഭിക്കും നിങ്ങൾക്ക് ഫ്രീക്വൻസി പ്രതികരണവും പ്ലോട്ട് ചെയ്യാം ഇപ്പോൾ 10 ഓം ലോഡ് മുതൽ 50 ഓം ട്രാൻസ്മിഷൻ ലൈൻ വരെ പൊരുത്തപ്പെടുന്ന ക്വാർട്ടർ വേവ് മാച്ചിംഗ് നെറ്റ്വർക്ക് രൂപകൽപ്പന ചെയ്യുക അതിനാൽ നിങ്ങൾക്ക് ഒരു VSWR എന്നത് 1 5 ആയിട്ടുണ്ടെങ്കിൽ Γmax എന്നതിന്റെ പരമാവധി മൂല്യം 0 2 ആയിരിക്കും ആ ഫോർമുലയിൽ ഈ Γmax മൂല്യവും Z0 ഉം ZL മൂല്യവും നൽകിയിരിക്കുന്നു Z0 എന്നത് 50 അല്ലെങ്കിൽ 500 ohm ഉം ഇത് 10 ohm ഉം ആണ് അതിനാൽ ഇത് എന്താണെന്ന് നിങ്ങൾക്ക് ലഭിക്കും തുടർന്ന് അത് നിങ്ങൾ ചെയ്യുക ട്രാൻസ്ഫോർമറിന്റെ ക്യാരക്റ്ററിസ്റ്റിക് ഇംപെഡൻസ് GM ആണ് അതായത് ജ്യാമിതീയ ശരാശരി അത് 22 360 ഓം ആണ് ഇത് lλ 4 ആണ് ഇവിടെ എന്താണ് λ ലാംഡ 3 ജിഗാ ഹെർട്സ് ആണ് 3 ഗിഗാ ഹെർട്സ് എന്നാൽ 10 സെന്റീമീറ്റർ അതിനാൽ ഇത് 2 5 സെന്റീമീറ്റർ നീളവും അതിന്റെ ശതമാനം ബാൻഡ്വിഡ്ത്തും ആയിരിക്കും ഇത് നിങ്ങൾക്ക് ഒരു 880 മെഗാ ഹെർട്സ് ബാൻഡ്വിഡ്ത്ത് നൽകുന്നു IEEE നിർവചനം അനുസരിച്ച് 500 മെഗാ ഹെർട്സ് കൂടുതലാണെങ്കിൽ അതിനെ അൾട്രാ വൈഡ് ബാൻഡ് എന്ന് വിളിക്കുന്നു അതിനാൽ ഇത് ശതമാനം അനുസരിച്ച് 29 ശതമാനമാണ് ക്വാർട്ടർ വേവ് ട്രാൻസ്ഫോർമറിനെ നിങ്ങൾ വളരെ ഉയർന്ന ബാൻഡ് അല്ല എന്ന് പറയുന്നു കാരണം ഇത് ഒരൊറ്റ ട്രാൻസ്ഫോർമർ സിംഗിൾ സെക്ഷൻ ആണ് പക്ഷേ ഇപ്പോഴും ഇത് നിങ്ങൾക്ക് 29 ശതമാനം നൽകുന്നു അപ്പോൾ നമ്മൾക്ക് 880 മെഗാ ഹെർട്സ് ബാൻഡ്വിഡ്ത്ത് അതായത് വലിയ ബാൻഡ്വിഡ്ത്ത് നേടാൻ കഴിയുമെന്ന് നിങ്ങൾ കാണുന്നു ഇത്തരത്തിലുള്ള ബാൻഡ്വിഡ്ത്ത് ഉള്ള വളരെ കുറച്ച് സിഗ്നലുകൾ മാത്രമേയുള്ളൂ ഇപ്പോൾ പരമാവധി ഫ്ലാറ്റ് റെസ്പോൺസ് ലഭിക്കുന്നതിന് 3 സെക്ഷൻ മാച്ചിങ് നെറ്റ്വർക്കിലേക്ക് അത് നീട്ടുക അതിനാൽ നിങ്ങൾ 3 വിഭാഗങ്ങൾ എടുക്കുക ZL എന്നത് 100 ആണ് Z0 എന്നത് 50 ആണ് നിങ്ങൾ അതിനോട് നേരിട്ട് പൊരുത്തപ്പെടാൻ ആവശ്യപ്പെട്ടാൽ വലിയ പൊരുത്തക്കേടുകൾ ഉണ്ടാകും എന്നാൽ ഇതിലൂടെ നമുക്ക് ആ സൂത്രവാക്യങ്ങൾ ലഭിക്കുന്നു അതിനാൽ Γ A 2N അതിൽ നിന്ന് നിങ്ങൾക്ക് A യുടെ മൂല്യങ്ങൾ കണ്ടെത്താനാകും വീണ്ടും നിങ്ങൾക്ക് ആവർത്തന ബന്ധം ഉപയോഗിക്കാവുന്നതാണ് ഈ Z1 Z2 Z3 മൂല്യങ്ങൾ ഓരോന്നായി നിങ്ങൾക്ക് കണ്ടെത്താനാകും അതിനാൽ നിങ്ങൾ അത് 100 ഓം ൽ നിന്ന് കാണുന്നു നിങ്ങൾക്ക് ആദ്യം 92 27 84 64 ഉണ്ട് അത് 50 ഓമുമായി പൊരുത്തപ്പെടുന്നു ബാൻഡ്വിഡ്ത്ത് 1 869 ഗിഗാ ഹെർട്സ് ആണ് നിങ്ങൾക്ക് ബാൻഡ്വിഡ്ത്ത് ശതമാനത്തിൽ ലഭിക്കുന്നു നിങ്ങൾക്ക് 93 1 നൽകാൻ കഴിയുന്ന 3 വിഭാഗം നിങ്ങൾ കാണുന്നു റെസ്പോൺസ് അത് പരമാവധി ഫ്ലാറ്റ് ആണ് അതിനാൽ ഇതാണ് ഡ്രോയിംഗ് ഇതാണ് 50 ഓം സെക്ഷൻ ഇത് 100 ഓം ലോഡ് ആണ് ഇത് പുരോഗമനപരമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നല്ല ഒരു ബന്ധവിട്ത് ശതമാനം ആയുള്ള മാച്ചിങ് നെറ്റ്വർക്ക് ലഭികുന്നു നോക്കൂ ഇത് ഒരു വൈഡ് ബാൻഡ് ഡിസൈൻ അതിനാൽ ഇപ്പോൾ വൈഡ് ബാൻഡ് ഡിസൈൻ വൈഡ് ബാൻഡ് ഇംപെഡൻസ് മാച്ചിംഗ് എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾ മനസ്സിലാക്കി അതോടെ നമ്മൾ ഈ ഭാഗം അവസാനിപ്പിക്കുന്നു അതിനാൽ ഒരു നാരോ ബാൻഡ് ഡിസൈനിനായി ഇംപെഡൻസ് മാച്ചിങ് എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾ ഇപ്പോൾ പഠിച്ചു നിങ്ങൾക്ക് ഒരു വൈഡ് ബാൻഡ് ഡിസൈൻ ആവശ്യമാണെങ്കിൽ ആ ആശയവും നിങ്ങൾ പഠിച്ചു അതിനാൽ നിങ്ങളുടെ പ്രൊഫഷണൽ കരിയറിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും